ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ I എല്ലാവർക്കും നമസ്ക്കാരം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള നമ്മളുടെ എൻപിടിഎൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോഴുള്ളത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകളെ കുറിച്ചുള്ള മൊഡ്യൂൾ നമ്പർ 27 ലാണ് അവസാന ക്ലാസ്സിൽ നമ്മൾ ഒരു ത്രിമാന വസ്തു നിർമ്മിച്ചു ഉദാഹരണത്തിന് നമുക്ക് ഇത് എടുക്കാം ഈ വസ്തു എടുത്ത് ഫ്രന്റ് വ്യൂവും നിർമ്മിക്കാൻ നമ്മൾ ശ്രമിച്ചു ഒരു ഗൃഹപാഠ പ്രശ്നമെന്ന നിലയിൽ ഈ വശത്തെ കാഴ്ച നിർമ്മിക്കാൻ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെട്ടു ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ഇതാണ് ഇവിടെ നമ്മൾ ടോപ് വ്യൂ ഇവയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഈ ഗോവണിയുടെ ഓർത്തോഗണൽ പ്രൊജക്ഷനുകൾ നമ്മൾ അത്തരത്തിലുള്ള എന്തെങ്കിലും നിർമ്മിക്കുകയാണെങ്കിൽ ഈ ഗോവണി പൂർണ്ണമായും പ്രതിഷ്ഠിക്കാനാകും നമ്മൾ ഈ ഗോവണിയുടെ കണക്ഷൻ ആകാം അതിനാൽ ഉപരിതലങ്ങളുടെ പുറകുവശം അതാര്യമായിരിക്കും അതിനാൽ ഞാൻ ഈ ഭാഗം മുഴുവൻ ആ പ്ലെയിനിലേക്ക് പടികളായി നമ്മൾ കാണും നമുക്ക് ഈ ഉപരിതലങ്ങൾ കാണാൻ കഴിയാത്തതിനാൽ നമുക്ക് കാണാൻ കഴിയുന്ന ശേഷിക്കുന്ന ഉപരിതലം ഈ പർപ്പിൾ നമുക്ക് കാണാൻ കഴിയും അതിനാൽ ഈ പർപ്പിൾ മറ്റൊരു ദീർഘചതുരമായും ദൃശ്യമാകും

അതുപോലെ നമ്മൾ സൈഡ് വ്യൂ നിന്നാണ് നോക്കുന്നത് അഥവാ ഇടത് ദിശയിൽ നിന്ന് വലത് ദിശയിലേക്ക് നോക്കുന്നു അതിനാൽ ഇത് ഇടത് വശത്തെ വ്യൂ നിർമ്മിക്കാം

ഇത് ഒരു ഡാഷ് തരത്തിലുള്ളതാണ് അതുവഴി കടന്നുപോകുന്നു അതിനു മുകളിൽ ഒരു ഫലകം ഉണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പിരമിഡ് ഘടനയുള്ള ഒന്നുണ്ട് അതൊരു പിൻ പോലെയാണ് അതിനാൽ അവിടെ അത്തരം പിൻ ഉണ്ട് ഒന്നും രണ്ടും ഭാഗം നമ്മൾ ഈ രണ്ടാമത്തെ ഭാഗം അതിനു മുകളിൽ ഘടിപ്പിച്ചുകഴിഞ്ഞാൽ അത് അതുപോലെ കാണപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് വസ്തുവിന്റെ വ്യൂസ് നിർമ്മിക്കാൻ കഴിയുമോ ഒന്നാമതായി അത് ചെയ്യുന്നതിന് ഏത് ദിശയിൽ നിന്നാണ് നമുക്ക് പരമാവധി അളവുകളും ചുരുങ്ങിയ എണ്ണം മറഞ്ഞിരിക്കുന്ന രേഖകളും ലഭിക്കുന്നത് എന്ന് തീരുമാനിക്കേണ്ടതുണ്ട് ഈ ദിശയിൽ അതിനെ നമുക്ക് ഫ്രണ്ട് വ്യൂ ചെയ്യപ്പെടുന്നു ഈ രേഖകളും അതിലേക്ക് മാപ്പ് നിന്ന് നോക്കുകയാണെങ്കിൽ ഈ മുഴുവൻ കാര്യവും ഇതിന് സമാന്തരമായി പോകുന്നു നമ്മൾ ഈ ദീർഘചതുരം നോക്കാൻ പോകുന്നു അതിനാൽ ഒരുപക്ഷേ ഈ മുഴുവൻ ദീർഘചതുരവും അതിന്റെ മധ്യത്തിൽ ഒരു രേഖ പോലെയുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അതിനാൽ ഇവിടെ എവിടെയെങ്കിലും ഒരു രേഖ നമുക്ക് കാണേണ്ടതുണ്ട് കൂടാതെ ആ രേഖ ഈ ബിന്ദുക്കളുമായി യോജിക്കുന്നു അതിനർത്ഥം ഇവിടെ എവിടെയെങ്കിലും നമുക്കത് യോജിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് ഈ ഭാഗം നീക്കം ചെയ്യാം അതിനാൽ ഈ ബിന്ദുവിലും ഈ ബിന്ദുവിലും രണ്ട് രേഖകൾ ത്രികോണാകൃതിയിൽ സന്ധിക്കേണ്ടതാണ് അതുപോലെ പുറകുവശത്ത് അവിടെ സന്ധിക്കേണ്ടതായിട്ടുള്ള ത്രികോണാകൃതിയിലുള്ള ഭാഗങ്ങളുണ്ട് അതിന് അവിടെ വരുന്ന ഒരു കനം ഉണ്ട് അതിനാൽ ഇവിടെയും കുറച്ചു കനം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അതുപോലെ അവിടെയും ആ ദിശയിൽ സഞ്ചരിച്ച് അവിടെ സന്ധിക്കുന്ന ഒരു രേഖ ഉണ്ട് കാരണം ഇതിൽ നിന്ന് ഇതിലേക്കുള്ള ദൂരം വലുതും ഇതിൽ നിന്ന് ഇതിലേക്കുള്ള ദൂരം ചെറുതും ആണ് അതിനാൽ അതിന്മേൽ സന്ധിക്കേണ്ടതുണ്ട് കൂടാതെ അവിടെ ഒരു രേഖ ഉണ്ടായിരിക്കണം ഇത് ദൃശ്യമാകേണ്ടതാണ് അതിനാൽ ഇതാണ് ദൃശ്യമാകേണ്ട രീതി ഇത് ഇവിടെ തുടർച്ചയായ ഒരു രേഖയായതിനാൽ അത് മുഴുവൻ ത്രികോണത്തെയും ബന്ധിപ്പിക്കുന്നു അത് അവിടെ ബന്ധിപ്പിക്കുന്നു ഈ രണ്ടും യോജിക്കേണ്ടവയാണ് കാരണം ഈ രേഖ ആ വശത്തും നമുക്ക് കാണാൻ കഴിയും അതിനാൽ ഫ്രണ്ട് വ്യൂ ചിലതു നമ്മൾ നിർമ്മിക്കുമ്പോൾ ഇതാണ് നമുക്ക് ലഭിക്കുന്ന രീതി നമ്മൾ ചിത്രീകരിച്ചത് എന്താണെന്നാൽ ഈ ഭാഗമാണ് നമ്മൾ ചിത്രീകരിച്ചത് ഈ ഭാഗവും നമ്മൾ ചിത്രീകരിച്ചു ഈ ഭാഗവും നമ്മൾ ചിത്രീകരിച്ചു എന്നാൽ ഈ രേഖ ഈ രേഖയുമായി പൊരുത്തപ്പെടണം അതിനാൽ നമുക്ക് കാണാൻ കഴിയുക ഒരു അടഞ്ഞ വസ്തുവായിരിക്കും എല്ലാവർക്കും വളരെയധികം നന്ദി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ച് വ്യത്യസ്ത പ്രശ്നങ്ങളും അവയുടെ വ്യൂസ് എങ്ങനെ നിർമ്മിക്കാമെന്നും നോക്കാം